ഉദാഹരണമായി നമുക്ക് 2D എടുക്കാം ഞാൻ 3D യിൽ എന്തെങ്കിലും വരയ്ക്കാൻ ശ്രമിക്കണം ഇതാണ് എന്റെ x ഇത് y ഇതെന്താണ് z അല്ല ഇത് 2D ആണ് ഇവിടെ z ഇല്ല ഇതിനുള്ളിൽ എന്റെ വാരിയബിൾസ് ഇങ്ങനെ ആണെന്ന് നിങ്ങൾക്ക് അറിയാം ഇതാണ് Yee സെല്ലിലെഎന്റെ കോഓർഡിനേറ്റുകൾ ഇവിടെ എത്ര Yee സെല്ലുകൾ ഞാൻ വരച്ചു1 ആണോ 4 ആണോ വിദ്യാർത്ഥി 4 അതേ 4 Yee സെല്ലുകൾ ആണ് ഞാൻ വരച്ചത് മുകളിൽ നിന്ന് നോക്കിയാൽ ഇത് എന്ത് പോലെ തോന്നും ഇത് ഞാൻ ഇവിടെ വരക്കുകയാണ് അവിടെ ഒരു x ഉണ്ട് ഇത് എത്ര അകലത്തിൽ ആണ് ഡെൽറ്റ y എന്ത് ഇക്വേഷൻ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അത്നോട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ TE പോളറൈസേഷനിലേക്ക് നോക്കുകയാണ് TE പോളറൈസേഷന്ഉണ്ടാവും ഈ ആരോകൾ എന്തിന്റെ മൂല്യങ്ങൾ ആണ് സൂചിപ്പിക്കുന്നത് ഈ അജ്ഞാതങ്ങൾ എന്തിനോട് അനുബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാർത്ഥി Ex Ex Ey എന്റെ Hz എവിടെയാണ് അത് ഇവിടെ മധ്യത്തിൽ ആവാം അഥവാ അതിനെ എനിക്ക് ഇവിടെ കൊണ്ട് വരാം അതൊന്നും പ്രശ്നമല്ല നമുക്ക് ഈ ഇക്വേഷൻ എഴുതാംe ഇതാണ് ആദ്യത്തെ കാര്യം അതിനാൽ അതാണെന്റെ അത് നോട് സമം ആവും ഇനി ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം ഇത് ഞാൻ എന്തിനോട് ഹരിക്കും ഇതാണ് ആദ്യത്തെ ടെർമ് എന്താണ് രണ്ടാമത്തെ ടെർമ് യഥാർത്ഥത്തിൽ എന്തോ ഒന്ന് ശരിയല്ല വിദ്യാർത്ഥി 10 ടൈംസ് അതേ ഇത് Ey ആണ് ഇത് ഇവിടെയാണ് ഉണ്ടാവുന്നത് അല്ല ഇത് Ex ആണ് ഇത് ആയിരിക്കണം വിദ്യാർത്ഥി ആ j എന്തായിരിക്കണം അതേ വിദ്യാർത്ഥി refer time 0436 അതേ അത്കൊണ്ട് നമ്മൾ ഇവിടെ മാറ്റുന്നത് x കോർഡിനേറ്റുകൾ മാത്രമാണ് അതിനാൽ ഇത് ആയിരിക്കണം ഇത് Ey യും ഇതാണ് ഒറിജിൻ 00 Ey വിലയിരുത്തപ്പെടുന്നത് ഹാഫ് ഇന്റിജറിൽ അല്ല പക്ഷെ ഇന്റിജർ ഇൻസ്റ്റൻസസിൽആണ് ഇത് എല്ലാം ഞാൻ ഒന്നൂടെ എഴുതാം അതേ അത്കൊണ്ട് ഇത് ആവണം ശരിയാണോ ഇത് അത് ശരിയാണെന്നു തോന്നുന്നുണ്ടോ നമ്മൾ ഇത് രണ്ടിന്റെയും വ്യത്യാസം ആണ് എടുക്കുന്നത് i ന്റെ സ്ഥാനം ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത് ആവും നമുക്ക് ഇക്വേഷൻ ഇവിടെ എഴുതാം നമ്മൾ z കമ്പോണെന്റിലേക്ക്മാത്രം ആണ് നോക്കുന്നത് ഇത് എന്തായി മാറും ആദ്യത്തെ ടെർമ് ആവും അവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട് ഈ എക്സ്പ്രഷൻആണ് നമുക്ക് വേണ്ടത് അതേ ഇത് യഥാർത്ഥത്തിൽ ശരിയാണ് ഗ്രിഡ് ന് നമുക്ക് വേറൊരു നിറം കൊടുക്കാം ഈ ഗ്രിഡ് ആണ് ഞാൻ ഇപ്പഴും പരിഗണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻശരിയാണ് ആദ്യത്തേത് Ex ആണ്ഇത് y നെ സംബന്ധിചുള്ള പാർഷിയൽ ഡെറിവേറ്റീവ്ആണ് അപ്പോൾ ഞാൻ എഴുതിയ ഈ എക്സ്പ്രഷൻതെറ്റാണ് ഇതാണ് x നമുക്ക് ഒന്നൂടെ ചെയ്തു നോക്കാം ഇത്തവണ നമുക്ക് കിട്ടണം ആദ്യമായിട്ടാണ് നമ്മൾ Ex ലേക്ക് നോക്കുന്നത് എന്താണ് ലൊക്കേഷൻ ഞാൻ ഇതിനെ ഇതിൽ നിന്നും കുറക്കുകയാണ് അതിനാൽ വിദ്യാർത്ഥി j ഇപ്പോൾ നമുക്ക് അത് ലഭിക്കുന്നു അടുത്ത ടെർമ് ആണ് അതിനാൽ Ey ഇത് മൈനസ് ആണ് ഇത് ഇങ്ങനെ ആവും യഥാർത്ഥത്തിൽ ഇത് എഴുതേണ്ട ആവശ്യം ഇല്ല പക്ഷെ എഴുതുന്നത് നല്ല ശീലം ആണ് ഇനി എന്താണ് ശരിക്കും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലേക്ക് നോക്കാം സ്റ്റബിലിറ്റി മാനദണ്ഡം അതിനാൽ നമുക്ക് വേവ് എടുക്കുന്ന ഏറ്റവും കുറവ് ദൂരം കണ്ട്പിടിക്കണം ഇവിടെയുള്ള ഈ റൈറ്റ് ടോപ് വ്യൂ ഡൈഗ്രാമിൽ ഒരു Yee സെല്ലിലെ4 മൂല്യങ്ങൾഭാവിയിൽ ടൈം ഇൻസ്റ്റൻസിൽH നിർണ്ണയിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കും ഇതാണ് ഭാവിയിലെ എന്റെ H അതാണ് എനിക്ക് വേണ്ടത് ബാക്കിയെല്ലാം പഴയതാണ് പഴയതാണ് ഇവയിലെല്ലാം എന്താണ് ഏറ്റവും ചെറിയ ദൂരം ഞാൻ ഇവിടെ വരച്ച4 ആരോകൾ ഉള്ള ഈ 4 പോയിന്റുകൾക്കിടയിൽ ഉള്ള ദൂരം ആവും അതായത് 1234 ഇതിൽ ഏതാണ് പച്ച ലൈൻആണോ നമ്മൾ സംസാരിക്കുന്നത് ഭൌതികമായി സഞ്ചരിക്കുന്ന വേവിനെ കുറിച്ചാണ് ഇനി നമുക്ക് ടൈം ചെയ്യണം തത്വം എന്താണെന്ന് വെച്ചാൽ വേവ് അടുത്ത പോയിന്റിലേക്ക് സഞ്ചരിക്കുന്നതിന് മുമ്പ് നമുക്ക് ടൈം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് സഞ്ചരിക്കാനുള്ള കുറഞ്ഞ ടൈം ആണ് വേണ്ടത് വേവ് ഈ ദിശയിലേക്ക് പോവുന്നത് ഉദാഹരണമായി നോക്കാം ഇതാണ് ഏറ്റവും കുറവ് കാരണം മറ്റേത് ഇതിനേക്കാൾ കൂടുതൽ ആണ് കാരണം അത് ഡയഗണലിൽ ആണ് അപ്പോൾ എത്രയായിരിക്കും ദൂരം ഗ്രിഡ് സ്പേസിങ്ങ് ആണ് ഇവിടെ c ലൈറ്റിന്റെ സ്പീഡ് ആണ് ഇല്ല അതിന് മുമ്പ് ടൈം അപ്ഡേറ്റ് ചെയ്യും അതേ ഇത് സഞ്ചരിക്കുകയാണ് വേവ് സഞ്ചരിക്കാൻ തുടങ്ങുന്നത് a യിൽ നിന്നാണ് ഈ പോയിന്റ് നെ bഎന്ന് വിളിക്കാം അപ്പോൾ വേവ് പോയിന്റ് aയിൽ നിന്നും പോയിന്റ് b ലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്യണം കാരണം എന്റെ അപ്ഡേറ്റ് ഇക്വേഷനിൽഈ പോയിന്റുകൾ എല്ലാം ഉണ്ട് അപ്പോൾ വേവ് പോയിന്റ്aൽ നിന്നും bലേക്ക് സഞ്ചരിക്കുന്നതിന് മുമ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്യും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ കേസിൽ എനിക്ക് ലളിതമായ അനുമാനം ഉണ്ടാക്കാം അതായത് അതാണ് ലളിതമായത് എന്ന് അനുമാനിക്കാം അപ്പോൾ ഈ എന്തായി മാറും അപ്ഡേറ്റ് ഇക്വേഷനിൽ ഡെൽറ്റ t തൌ നേക്കാളും കുറവായിരിക്കണം ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ ന്റെ ഫാക്ടർ അധികമായി വന്നു ഈ പോയിന്റുകൾ സ്ക്വയറിൽ അണിനിരത്തിയിരിക്കുന്നതിനാലാണത് മാത്രമല്ല നിങ്ങൾ മിഡ്പോയിന്റുകൾക്കിടയിൽ ഉള്ള ഡയഗണലിലേക്കാണ്നോക്കുന്നത് എങ്കിൽ 3D യിൽ എന്താണ് സംഭവിക്കുക എനിക്ക് കിട്ടും വിദ്യാർത്ഥി അതെന്താണ് ഞാൻ കുറഞ്ഞ ദൂരം ആണ് നോക്കുന്നത് സിഗ്നൽ അവിടെ എത്തുന്നതിനു മുമ്പ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം കമ്പ്യൂട്ടേഷണിൽ ഏതാണ് കൂടുതൽ വിഷമകരം 1D 2D 3D ഇവയെ നിങ്ങൾക്ക് കംപ്യൂറ്റേഷണൽ റിസോർസസിന്റെഅടിസ്ഥാനത്തിൽ തരം തിരിക്കണം 3D ആണ് കൂടുതൽ വിഷമകരം കാരണം കൂടുതൽ മികച്ചതായിരിക്കണം മറ്റൊന്ന് അതിരുകൾ കൂടുതൽ ശക്തമാകുന്നു 1D യിലെ ആകാം അത്ര മതിയായതല്ല അതിനാൽ 3D യിലെ എടുക്കാം അതായത് കൂടുതൽ ഡൈമൻഷനുകൾമികച്ച ടൈം ഡിസ്ക്രിടൈസേഷൻ സൂചിപ്പിക്കുന്നു എന്താണ് നമ്മൾ ചെയ്തത് നമ്മൾ ഇതുവരെ ചെയ്തത് ചുരുക്കിപറയാം സ്പേസ് അപ്ഡേറ്റ് ചെയ്തു ടൈം അപ്ഡേറ്റ് ചെയ്തു സ്റ്റബിലിറ്റി ഏത് സാഹചര്യത്തിൽ ആണ് അവിടെ വേവ് പോലെ ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ കുറാന്റ് സ്റ്റബിലിറ്റി മാനദണ്ഡംകണ്ടുപിടിച്ചു അടുത്ത ചോദ്യംഇത് മതിയോ എന്നതാണ് എഴുതിയത് നമുക്ക് തല്ക്കാലം മറക്കാം നമുക്ക് പടിപടിയായി അതിലേക്ക് പോവാം സ്റ്റബിലിറ്റി എനിക്ക് കിട്ടി പക്ഷെ ഉത്തരം ശരിയാണോ അതാണ് അടുത്ത ചോദ്യം ഇതിനെയാണ് കൺവെർജൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് വ്യവസ്ഥാപികമായി പോവാം എങ്ങനെ നമ്മൾ തുടങ്ങും എന്താണ് Yee സെല്ലിന് മുമ്പുള്ള FDTD യുടെ പരിപൂർണമായ സ്റ്റാർട്ടിങ് പോയിന്റ് മാക്സ്വെൽസ് ഇക്വേഷൻMaxwells equation പാർഷിയൽ ഡിഫറെൻഷിയൽ ഇക്വേഷൻ നമുക്ക് PDE അഥവാ സെറ്റ് ഓഫ് PDE കൊണ്ട് തുടങ്ങാം ഈ PDE കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അടുത്തതായി നമ്മൾ Yee സെല്ലിലേക്ക് പോയിഅതായത് ഡിസ്ക്രിടൈസേഷൻ ചെയ്തു ഡിസ്ക്രിടൈസ് ചെയ്തപ്പോൾ എന്ത് തരത്തിലുള്ള ഇക്വേഷനുകൾ ആണ് എനിക്ക് കിട്ടിയത് ലിനീയർ ആണോ നമ്മൾ ടയിലേർസ് സിദ്ധാന്തം Taylors theorem ഉപയോഗിച്ചു ഡെറിവേറ്റീവിനെഫങ്ക്ഷൻ മൂല്യം കൊണ്ട് സബ്സ്റ്റിട്ടൂട്ട്ചെയ്തു അപ്പോൾ എനിക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്കിട്ടി അതിനാൽ എനിക്ക് ഇത് സിസ്റ്റം ഓഫ് ആൾജിബ്രിക് ഇക്വേഷൻസ് ആയി എഴുതാൻ കഴിയും അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്നത് ഈ ഡിസ്ക്രിടൈസേഷൻ ഡെൽറ്റ x ന്റെയും ഡെൽറ്റ tയുടെയും അടിസ്ഥാനത്തിൽ ആണോ എന്നതാണ് തീർച്ചയായും അതാണ് ഡിസ്ക്രീറ്റ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിപരീത ദിശയിൽ പോയി സ്ഥിരത ചോദിക്കാൻ കഴിയും അതായത് ഞാൻ ഡിസ്ക്രിടൈസ്ചെയ്ത സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് PDE കളോട് സ്ഥിരത ഉള്ളതാണോ ഇപ്പോൾ തത്കാലം നമുക്ക് അത് വിടാം എനിക്ക് സിസ്റ്റം ഓഫ് ആൾജിബ്രിക് ഇക്വേഷൻസ്കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ അത് പരിഹരിച്ചു ഏകദേശം ശരിയായ സൊല്യൂഷൻകിട്ടി ഏത് വ്യവസ്ഥകളുടെ കീഴിൽ ആണ് എനിക്ക് അത് കിട്ടിയത് സ്റ്റബിലിറ്റി അല്ലെ സ്റ്റബിലിറ്റി യുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഏകദേശം ശരിയായ സൊല്യൂഷൻകിട്ടി സ്ഥിരത എന്ന ആശയം അവിടെ ഉണ്ട് ഇവിടെയുള്ള ഈ മൂന്ന് തരത്തിൽ ഉള്ള സ്ക്വയർ ബോക്സുകളിൽ എന്തോ ഒന്ന് കാണുന്നില്ല PDE കൾ ഉണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ട് ഏകദേശം ശരിയായ സൊല്യൂഷനുംഉണ്ട് പിന്നെ എന്തായിരിക്കും ഞാൻ 3 ബോക്സുകൾ വരക്കും എന്നതാണ് സൂചന ശരിയായിട്ടുള്ള സൊല്യൂഷൻ അതായത് കൃത്യമായത് മുമ്പത്തെ കാലത്ത് കമ്പ്യൂട്ടേഷൻഇല്ലായിരുന്നു നിങ്ങൾ ഇവിടെ നിന്നും അവിടേക്ക് പോയി ചെയ്യാൻ ശ്രമിക്കണം പക്ഷേ അതു പലതവണ സാധ്യമല്ല അത്കൊണ്ടാണ് ന്യൂമറിക്കൽ മെത്തോഡ്സ്ആവശ്യം ഉള്ളത് അപ്പോൾ എന്താണ് ഇത് ഈ ആരോയിൽ ഞാൻ എന്താണ് എഴുതേണ്ടത് കൺവേർജൻസ് ഗണിതശാസ്ത്രപരമായി ഞാൻ എങ്ങനെ കൺവെർജെൻസ് എഴുതും അതായത് എങ്ങനെ എനിക്ക് ഏകദേശം ശരിയായ സൊല്യൂഷൻ കിട്ടും എന്നിട്ട് എനിക്ക് കൺവെർജൻസ് ചെയ്യണം അപ്പോൾ എന്താണ് കൺവെർജൻസ് അപ്പോഴാണ് എനിക്ക് ശരിയായ സൊല്യൂഷൻ കിട്ടുന്നത് യഥാർത്ഥജീവിതത്തിൽ കൺവേർജൻസിനെതാരതമ്യം ചെയ്യാൻ എനിക്ക് ഒരു ശരിയായ സൊല്യൂഷൻ ഉണ്ടോ അപ്പോൾ എന്താണ് കൺവെർജൻസ്എന്ന ആശയം വിദ്യാർത്ഥി ന്യൂമറിക്കൽ ന്യൂമറിക്കൽ കോൺവെർജൻസ് തുടർന്നുള്ള ഡിസ്ക്രിടൈസേഷനുകൾഅവയുടെ ഉത്തരത്തിൽ വലിയ വ്യത്യാസം വരുത്തുന്നില്ല ഒരു നിശ്ചിത പോയിന്റിനപ്പുറം കൃത്യമായ ഡിസ്ക്രിടൈസേഷൻ പോലും അടിസ്ഥാനപരമായി അതേ ഉത്തരം ആണ് മെഷീൻ എപ്സിലോണിന്നൽകുന്നത് അതാണ് നമ്മുടെ ന്യൂമറിക്കൽ കൺവെർജൻസ് ഇവിടെ കൺവെർജൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതിനാൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ വളരെ നിർണ്ണായകമായ ഒന്നാണ് ലാക്സ് ആൻഡ് റിച്ട്മൈയർ സിദ്ധാന്തം എന്താണ് ഇത് പറയുന്നത് ശരിയായി പോസ്ചെയ്ത ലിനീയർ ഇനീഷിയൽ വാല്യൂ പ്രോബ്ലം ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് പിന്നെ ഫൈനൽ ഡിഫറെൻസ് അപ്രോക്സിമേഷനും ഇതാണ് എനിക്ക് തരുന്നത് എന്താണ് ഇത് പറയുന്നത് ഇത് കൺസിസ്ടൻസി ഇക്വേഷനുകളെ തൃപ്തിപെടുത്തുകയും വേണം സ്റ്റബിലിറ്റി അത്യാവശ്യം ആണ്കൺവെർജെൻസിനു മതിയാവുകയും ചെയ്യും ഗണിതശാസ്ത്രജ്ഞൻമാർ ഉപയോഗിച്ചിരുന്ന ഒരു സിദ്ധാന്തം ആണിത്പക്ഷെ എഞ്ചിനീയർ എന്ന നിലയിൽ നമ്മൾ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ സൊല്യൂഷൻ യഥാർത്ഥ സൊല്യൂഷനോട്കൺവെർജ് ചെയ്യുമെന്ന് എന്താണ് ഉറപ്പ് പക്ഷെ നിങ്ങൾക്ക് യഥാർത്ഥ സൊല്യൂഷൻഅറിയില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് അയാൾക്ക് എന്ത് ഉത്തരം കൊടുക്കും നിങ്ങൾക്ക് കഴിയില്ല പക്ഷെ ഈ സിദ്ധാന്തം എന്റെ സൊല്യൂഷൻസ്റ്റാബിൾആണ് എന്നുള്ളതിന് റഫറൻസ് ആയി ഉപയോഗിക്കാം FDTD യിൽ നിങ്ങൾ എന്ത് പറയും എന്റെ എന്ന ചോയ്സ് കുറാന്റ് സ്റ്റബിലിറ്റി മാനദണ്ഡത്തെ റെസ്പെക്ട് ചെയ്യുന്നു അതിനാൽ ഇത് സ്റ്റാബിൾആണ് ഈ സിദ്ധാന്തം അനുസരിച്ചു എന്റെ സൊല്യൂഷനിൽകൺവേർജൻസ് കൊണ്ടുവരാൻ ഇത് നല്ലതാണ് എന്ത് തരത്തിൽ ഉള്ള കൺവെർജൻസ് നിങ്ങൾക്ക് ന്യൂമറിക്കലി കാണിക്കാൻ കഴിയും അതായത് ന്യൂമറിക്കൽ കൺവെർജൻസ് എന്നിട്ട് നിങ്ങൾ PDE സോൾവ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ അത് സോൾവ് ചെയ്തെന്ന് ആരെങ്കിലും പറയും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻകിട്ടും പക്ഷെ ഇതാണ് യഥാർത്ഥ സൊല്യൂഷൻ എന്നതിന് എന്താണ് തെളിവ് അത്കൊണ്ട് സ്റ്റബിലിറ്റിആണ് പ്രധാനകാര്യം നിങ്ങൾ വാണിജ്യ FDTD സോഫ്റ്റ്വെയർനോക്കിയാൽ ഈ കുറാന്റ് സ്റ്റബിലിറ്റി ഫാക്ടർആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് അനുസരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതായത് നിങ്ങളുടെ സ്റ്റബിലിറ്റി തൃപ്തിപ്പെടുന്നു കൺവെർജെൻസും ഇതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ ഞാൻ പറഞ്ഞത് പോലെ കുറാന്റ് ഫാക്ടർതൃപ്തിപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയാൽ മതിഎഞ്ചിനീയറിങ്ങിൽകാര്യമായ പ്രായോഗിക ഉപയോഗം ഇല്ല